നമുക്ക് ഇപ്പോഴുള്ള വ്യത്യസ്ത ഭരണകൂടങ്ങളിലേക്ക് വരാം ഭരണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് വ്യത്യസ്ത ക്രമീകരണങ്ങൾക്കുള്ള വ്യത്യസ്ത തരം നിയമങ്ങൾ മൊത്തത്തിലുള്ള നിയമങ്ങളിൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഒന്നുതന്നെയാണ് പക്ഷേ സാഹചര്യത്തെ ആശ്രയിച്ച് എനിക്ക് അവരെ സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ പ്രത്യേക കേസുകൾ എന്തൊക്കെയാണ് അവയെ വ്യത്യസ്ത ഭരണകൂടങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ മുകളിൽ നിന്ന് ആരംഭിക്കാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നു മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾക്ക് സ്ഥലത്ത് ഒരു ഡെറിവേറ്റീവും കൃത്യസമയത്ത് ഒരു ഡെറിവേറ്റീവും ഉണ്ടായിരുന്നു പോലുള്ള നിബന്ധനകൾ അവർക്കുണ്ടായിരുന്നു ഞാൻ ഇത് തുറക്കുമ്പോൾ ഇത് സ്പേഷ്യൽ ഡെറിവേറ്റീവ് അവകാശമാണ് എനിക്ക് അത് പോലുള്ള പദങ്ങളുണ്ട് അവയ്ക്ക് സമയ ഡെറിവേറ്റീവ് പോലുള്ള പദങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ സ്ഥലത്ത് ഒരു ഡെറിവേറ്റീവ് ഉണ്ട് സമയത്തിൽ ഒരു ഡെറിവേറ്റീവ് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കാര്യം ഈ രണ്ട് ഡെറിവേറ്റീവുകളുടെ ആപേക്ഷിക ഭാരം എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ വളരെ വലുതാണെങ്കിൽ ചെറുത് അവഗണിക്കാം അവ താരതമ്യപ്പെടുത്താവുന്നതാണെങ്കിൽ ഞാൻ അവ രണ്ടും സൂക്ഷിക്കണം ഇതാണ് അടിസ്ഥാന ആശയം ശെരിയല്ലേ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം വൈദ്യുതകാന്തികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബിരുദ കോഴ്സിൽ നിങ്ങൾ ഇത് വീണ്ടും കേൾക്കുമായിരുന്നു എന്നതാണ് നിങ്ങൾ എല്ലാവരും അതിർത്തി വ്യവസ്ഥകൾ എന്ന വാക്ക് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു അതിർത്തിയിലെ ഫീൽഡ് ചില അതിർത്തി വ്യവസ്ഥകൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് നമ്മൽ പോകുമ്പോൾ അവ നോക്കും എന്നാൽ അതിർത്തി വ്യവസ്ഥയ്ക്ക് പിന്നിലെ ഒരു അവബോധജന്യമായ ആശയം എന്തെന്നാൽ ഇവിടെ ഒരു വസ്തു പറയാൻ ഞാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ വസ്തുവിന് ചുറ്റും ഒഴുകുന്ന വൈദ്യുതകാന്തിക മണ്ഡലത്തിന്റെ വലുപ്പം L എന്ന് പറയട്ടെ അത് ഈ അതിരുകളെ ബഹുമാനിക്കണം നിങ്ങൾക്കറിയാമോ അതിനെ ചുറ്റിപ്പറ്റിയാണ് ചുറ്റുമുള്ള വളച്ചൊടിക്കൽ അത് ശരിയല്ലെങ്കിലും പെരുമാറാൻ കഴിയില്ല അതിനാൽ ഉദാഹരണത്തിന് നമുക്ക് ഈ ദിശ x ആകാം അതിനാൽ വീണ്ടും വളരെ അവബോധപൂർവ്വം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ വലുപ്പമുള്ള L എന്ന വസ്തുവിന് ഫീൽഡിന്റെ ഈ മാറ്റത്തിന്റെ നിരക്ക് കോർഡിനേറ്റ് x സഹിതം എത്രത്തോളം നിങ്ങൾ കരുതുന്നു അത് എന്തായിരിക്കും എൽ സംബന്ധിച്ചുള്ള അതിന്റെ ബന്ധം നിങ്ങൾ എങ്ങനെ എഴുതും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ അവബോധപൂർവ്വം അറിയേണ്ടതില്ല അത് ആനുപാതികമായി L ന് ആനുപാതികമോ L ന് വിപരീത അനുപാതമോ ആയിരിക്കണമോ ഫീൽഡിന്റെ മാറ്റത്തിന്റെ നിരക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്തുകൊണ്ട് 1L ആനുപാതികമാണ് കാരണം ഇത് 1L ന് ആനുപാതികമാണെന്ന് ഞാൻ പറയുന്നു എൽ വളരെ വലുതായിരിക്കുന്ന കേസ് ചിന്തിക്കുക എന്നിരുന്നാലും അത് വളരെ വലുതാണെങ്കിൽ പോലും അനന്തമെന്ന് നമുക്ക് പറയാം x ദിശയിൽ വ്യത്യാസമില്ല വസ്തു അനന്തമായതുപോലെയാണ് അതിനാൽ ഫീൽഡിന് L വളരെ വലുതായി വളയ്ക്കാൻ ഒന്നുമില്ല അതിനാൽ ഞാൻ 0 ആണെന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ഫീൽഡ് മാറ്റേണ്ട ആവശ്യമില്ല കാരണം ആ ദിശയിൽ മാറ്റമില്ല മറുവശത്ത് L വളരെ ചെറുതാണെങ്കിൽ ചെറിയ ഫീൽഡ് ശരിയാണ് അതിനാൽ വസ്തു ചെറുതാണ് ഈ ഫീൽഡിന്റെ വളവ് വലുതായിരിക്കും ശരി അതിനാൽ ഇത് വെറും അവബോധജന്യമായ അവകാശമാണ് അതിനാൽ നമുക്ക് ആനുപാതികമായി പറയാം കഥയുടെ ഒരു വശം സ്പേസ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യം ടൈം ഡെറിവേറ്റീവ് ഓകെ ആണ് നിങ്ങൾ എല്ലാവരും സിസ്റ്റങ്ങളിൽ സിഗ്നലുകൾ പോലുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സമവാക്യങ്ങളുടെ ഒരു രേഖീയ സംവിധാനം നോക്കുമ്പോൾ ആവൃത്തി സമയം പഠിക്കുന്നതിനുള്ള ഏറ്റവും സൌകര്യപ്രദമായ മാർഗം ഏതാണ് ഫോറിയർ പരിവർത്തനം അതിനുമുമ്പ് എല്ലാം ഒരു ഫാസറിന്റെ അടിസ്ഥാനത്തിൽ ജി ഒമേഗ ടിയിലേക്ക് പ്രതിനിധാനം ചെയ്യുക സിസ്റ്റത്തിന്റെ പ്രതികരണം ഞാൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എനിക്ക് അടിസ്ഥാനപരമായി എല്ലാം ശരിയായി മനസ്സിലാകും അതിനാൽ ഇവിടെ എടുക്കാം സമയം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും അതിനാൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്ത് ലഭിക്കും വിദ്യാർത്ഥി ശെരി എങ്കിൽ ജെ നമുക്ക് മറക്കാം ജെ ഒരു സ്ഥിരാങ്കം ആണ് എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിപരീതമായി അല്ലെ അതിനാൽ ഇത് എന്താണ് വിദ്യാർത്ഥി C എല്ലാ സ്ഥിരാങ്കങ്ങളും മറക്കുക ഓക്കേ അതിനാൽ ഈ രണ്ട് പദങ്ങളും തമ്മിലുള്ള ബന്ധത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ശരിക്കും സംഭവിക്കുന്നത് എനിക്ക് 1L ആനുപാതികമായ ഒരു സ്പേസ് ഡെറിവേറ്റീവ് ഉണ്ട് എനിക്ക് ഒരു സമയ ഡെറിവേറ്റീവും ഉണ്ട് അത്നു ആനുപാതികമാണ് ഇവയാണ് രണ്ട് പൂർത്തിയായ നിബന്ധനകൾ ഉദാഹരണത്തിന് ഇത് ഓർക്കുക എനിക്ക് ഉണ്ടായിരുന്ന ഈ സമവാക്യം ഇതിനു തുല്യവും ആ സമവാക്യങ്ങളിലൊന്നും ആ യിരുന്നു ഈ രണ്ട് നിബന്ധനകൾ തമ്മിലുള്ള ഒരു വടംവലി പോലെയാണ് ഇത് ആരാണ് ശരിയായി വിജയിക്കാൻ പോകുന്നത് അതിനാൽ L ഉം ഉം തമ്മിലുള്ള അനുപാതത്തെ അടിസ്ഥാനമാക്കി ഈ മൂന്ന് ഭൌതികശാസ്ത്ര വ്യവസ്ഥകളും സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഈ L നേക്കാൾ വളരെ ചെറുതാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് എന്ത് പറയാൻ കഴിയും വളരെ വലുതാണ് വളരെ വലുതാണെങ്കിൽ ഈ പദത്തിന് എന്ത് സംഭവിക്കും വളരെ ചെറിയ അവകാശമായി മാറും അതിനാൽ ഈ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ സമയ ഭാഗം എനിക്ക് അവഗണിക്കാം ഈ ഭാഗം വളരെ ചെറുതായിത്തീരും ഈ ഭാഗം ശരിയായി നാമനിർദ്ദേശം ചെയ്യും സമയത്തെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അത്തരം സമവാക്യങ്ങളെ എന്താണ് വിളിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ തന്നെ പക്ഷേ അതിന് ചെറിയ ചെറിയ പ്രത്യേക പേറുകൾ ഉണ്ട് സ്ഥിതിവിവരക്കണക്കുകൾ അല്ലെ കാരണം അവ സമയത്തെ ആശ്രയിക്കുന്നില്ല നമ്മൾ അവയെ ഇലക്ട്രോസ്റ്റാറ്റിക് മാഗ്നെറ്റോ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിക്കുന്നു പൊതുവേ നമ്മൾ അവരെ സ്റ്റാറ്റിക്സ് എന്ന് വിളിക്കും സമയ നിബന്ധനകൾ ഇല്ലെങ്കിൽ വൈദ്യുത മണ്ഡലത്തിന്റെ സ്പേസ് ഡെറിവേറ്റീവ് കാന്തികക്ഷേത്രത്തിന്റെ സ്പേസ് ഡെറിവേറ്റീവ് എന്നെല്ലാം അവയ്ക്കിടയിൽ ഒരു ബന്ധവുമില്ല കാരണം ടൈം ഡെറിവേറ്റീവ് വഴിയാണ് കപ്ലിംഗ് നടക്കുന്നത് ഈ സ്ഥിതിവിവരക്കണക്കുകൾ അവ സംയോജിതമല്ലാത്ത സമവാക്യ സംവിധാനമാണ് വൈദ്യുത മണ്ഡലത്തിന് അതിന്റേതായ കഥയുണ്ട് കാന്തിക മണ്ഡലത്തിന് അതിന്റേതായ കഥയുണ്ട് അതിനാൽ ഞങ്ങൾ അവരെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്നീ വാക്കുകൾ നിങ്ങൾ കേട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതകാന്തിക സ്ഥിതിവിവരക്കണക്കുകൾ ഇല്ല ഈ രണ്ട് ഡെറിവേറ്റീവ് പദങ്ങളും താരതമ്യപ്പെടുത്താവുന്നവയാണ് അതിനാൽ അതിനെയാണ് മിഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് ഈ മിഡ് ഫ്രീക്വൻസി ശ്രേണിയിൽ പുറമേക്ക് പാതയില്ല ഇവിടെ സ്പേസ് ഡെറിവേറ്റീവ് ടൈം ഡെറിവേറ്റീവ് എന്നിവ ഉപയോഗിക്കേണ്ടതുണ്ട് ഒരു പദം കുറവായതിനാൽ സ്ഥിതിവിവരക്കണക്കുകൾ എളുപ്പമാകുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും മിഡ് ഫ്രീക്വൻസി കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് കാരണം ഈ രണ്ട് ഡെറിവേറ്റീവുകളും ശ്രദ്ധിക്കണം ഈ കോഴ്സ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഭാഗമായ മിഡ് ഫ്രീക്വൻസി ശ്രേണിയിലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സംയോജിത സമവാക്യങ്ങൾ ലഭിക്കും മറ്റൊരു കാര്യം ഈ സമവാക്യങ്ങൾ നിങ്ങൾ മുമ്പ് സ്ലൈഡുകളിൽ കണ്ടതുപോലെ ഞാൻ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ കാണിച്ചപ്പോൾ ഒരു സമവാക്യം പുറത്തുവരുമെന്നതാണ് അതായത് മിഡ് ഫ്രീക്വൻസി ശ്രേണിക്ക് വേവ് പോലുള്ള പരിഹാരങ്ങൾ ഉണ്ട് അതിനാൽ അത് വീണ്ടും നമ്മൾ കാണും അവ തരംഗമാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ സെൽ ഫോണിന് ബേസ് സ്റ്റേഷനിലേക്ക് ഒരു സിഗ്നൽ അയയ്ക്കാൻ കഴിയുന്നത് സൂര്യനിൽ നിന്ന് ഞങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നു കാരണം തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനാകും മറുവശത്ത് നിങ്ങൾ സ്ഥിതിവിവരക്കണക്കുകളിലെ പരിഹാരങ്ങൾ നോക്കിയാൽ അവ എളുപ്പമാർന്ന പരിഹാരങ്ങൾ പോലെ തരംഗമല്ല ലാപ്ലേസ് സമവാക്യം പോയ്സന്റെ സമവാക്യം അവ എളുപ്പമല്ല തരംഗമല്ല മിഡ് ഫ്രീക്വൻസി ശ്രേണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ ഹ്രസ്വ ശ്രേണിയാണ് ഒബ്ജക്റ്റ് സൈസ് തരംഗദൈർഘ്യത്തേക്കാൾ വളരെ വലുതാണ് അതിനാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് എവിടെയാണ് കണ്ടതെന്ന് ആർക്കെങ്കിലും പറയാമോ ഇത് വളരെ സാധാരണ വെളിച്ചമാണ് ശരിയല്ലേ വിദ്യാർത്ഥി അതെ ഉദാഹരണത്തിന് വെളിച്ചത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം എത്രയാണ് 500 നാനോമീറ്ററുകൾ നമ്മുടെ ദൈനംദിന വസ്തുക്കളുടെ വലുപ്പം എത്രയാണെന്ന് നമുക്ക് പറയാം സെന്റിമീറ്റർ മീറ്റർ ക്രമത്തിൽ മൈക്രോൺ എന്നതിനേക്കാൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കൂടാതെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് ആവശ്യമാണ് അവിടെ തരംഗദൈർഘ്യം വളരെ ചെറുതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് ഫീൽഡ് ഒരു വസ്തുവിന് ചുറ്റും വ്യത്യാസപ്പെടുകയോ നാടകീയമായി മാറുകയോ ചെയ്യേണ്ടതില്ല കാരണം ഒബ്ജക്റ്റിന്റെ വലുപ്പം വളരെ വലുതാണ് അതായത് ഇവിടെ സംഭവിക്കുന്നത് ഇത് ഒപ്റ്റിക്സിന്റെ ഒരു ഭരണമാണ് നിങ്ങൾക്ക് കിരണങ്ങൾ പോലുള്ള പരിഹാരങ്ങൾ ലഭിക്കും അതിനാൽ സ്റ്റാറ്റിക്സ് കേസിലും റേ ഒപ്റ്റിക്സ് കേസിലും മിഡ് ഫ്രീക്വൻസി ശ്രേണിയിലും നമ്മൾ ഈ കോഴ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ അനുമാനം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സിദ്ധാന്തമുണ്ട് നിങ്ങൾ ഈ രണ്ട് അനുമാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗണിതശാസ്ത്രം കുറച്ചുകൂടി ലളിതമാക്കാൻ കഴിയും മിഡ് ഫ്രീക്വൻസി ആവശ്യമുള്ള എല്ലാ ഹെവിവെയ്റ്റ് മെഷിനറികളും നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല മറുവശത്ത് മിഡ് ഫ്രീക്വൻസി രീതികൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ മറ്റ് രീതികൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് കാരണം അവ ലളിതമായ പതിപ്പാണ് അതിനാൽ ഈ കോഴ്സിലെ മിഡ് ഫ്രീക്വൻസി രീതികളിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ശരി ഇത് ഇതുവരെ വ്യക്തമായിരിക്കണം എന്ന് കരുതുന്നു